എല്ലാവർക്കും സുപ്രഭാതം ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ ഡിസി ഡിസികൺവെർട്ടർ സിസ്റ്റം ഒരു പക്ഷിയുടെ കാഴ്ചയിലൂടെ നമുക്ക് കാണാം ഇതുപോലുള്ള ഒരു ലോഡ് പരിഗണിക്കുക ഈ ലോഡിന് ഒരു ഡിസി വോൾട്ടേജ് മാത്രമേ ലഭിക്കൂ ഡിസി വോൾട്ടേജ് ഇതുപോലുള്ള ഒരു ഡിസി സ്രോതസ്സിലൂടെ നൽകാൻ കഴിയും നമ്മൾ ഉപയോഗിച്ച ഡിസി ഉറവിടം ഒരു ബാറ്ററിയാണ് എന്നിരുന്നാലും ബാറ്ററിയും ലോഡും പൊരുത്തപ്പെടാതിരിക്കാം ഉദാഹരണത്തിന് ബാറ്ററി 12 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 24 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 48 വോൾട്ട് ബാറ്ററി ലോഡ് 5 വോൾട്ട് ലോഡ് ആയിരിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ഉയർന്ന വോൾട്ട് പ്രതീക്ഷിക്കുന്ന ലോഡിലേക്ക് ബാറ്ററി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല കോർഡിനും ഡിസി ഡിസി കൺവെർട്ടറിനും ഇടയിൽ നമുക്ക് ഒരു പവർ ഇന്റർഫേസ് ഉണ്ടായിരിക്കണം ഇതാണ് ഒപ്റ്റിക്കിന്റെ ശ്രദ്ധാകേന്ദ്രം ഇതാണ് നമുക്ക് ചെയ്യാൻ ഉള്ളതും രൂപകൽപ്പന ചെയ്യേണ്ടതും എന്നിരുന്നാലും മിക്ക കേസുകളിലും ഇൻപുട്ട് ബാറ്ററി ആയിരിക്കില്ല ഇൻപുട്ട് എസി ഗ്രിഡ് തന്നെയായിരിക്കാം ഇത് എസി ഗ്രിഡാണെങ്കിൽ ഇൻപുട്ട് തരംഗത്തിന്റെ ആകൃതി 230 വോൾട്ട് ആർഎംഎസ് ഉള്ള ഒരു ആൾട്ടർനേറ്റിംഗ് ബൈ ഡയറക്ഷനൽ വോൾട്ടേജ് വേവ് ആകൃതിയായിരിക്കും ഇപ്പോൾ ഇത് ഡിസി ഡിസി കൺവെർട്ടർ ഇൻപുട്ടുമായി നേരിട്ട് പൊരുത്തപ്പെടുന്നില്ല അതിനാൽ ഈ പ്രത്യേക തരംഗ രൂപത്തിനായി നമ്മൾ കൂടുതൽ ശക്തി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു റക്റ്റിഫയർ ഉപയോഗിച്ച് നമ്മൾ അത് ശരിയാക്കുകയും യൂണിഡയറക്ഷനൽ വേവ് രൂപത്തെ രൂപത്തിലാക്കുകയും ചെയ്യുന്നു ഈ യൂണിഡയറക്ഷനൽ വേവ് വളരെ വ്യത്യസ്തപെടുന്നതും കൂടാതെ ഡിസി ഡിസി കൺവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് നേരിട്ട് നൽകാൻ ഈ സിസ്റ്റം അനുയോജ്യവുമല്ല അതിനാൽ നമ്മൾ ഫിൽട്ടർ എന്ന മറ്റൊരു ഇന്റർഫേസ് ഉപയോഗിക്കുന്നു വളരെ വ്യത്യസ്തമായ ഈ യൂണിഡയറക്ഷനൽ വോൾട്ടേജിനെ ലോ റിപ്പിൾ അനിയന്ത്രിത വോൾട്ടേജ് ആക്കി മാറ്റുക എന്നതാണ് ഫിൽട്ടറിന്റെ ജോലി ഈ ലോ റിപ്പിൾ അനിയന്ത്രിത വോൾട്ടേജ് ഡിസി ഡിസി കൺവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നു ഇത് ഉയർന്ന നിലവാരമുള്ള ഡിസി ഔട്ട്പുട്ടായി രൂപാന്തരപ്പെടുന്നു അത് ശുദ്ധമായ ഡിസി പ്രതീക്ഷിക്കുന്ന ലോഡിന്റെ പ്രത്യേക ആപ്ലിക്കേഷനിലേക്ക് നൽകാം നിങ്ങൾ റക്റ്റിഫയർ നോക്കുകയാണെങ്കിൽ റക്റ്റിഫയർ ഒരു ലളിതമായ ഡയോഡല്ലാതെ മറ്റൊന്നുമല്ല ഇത് ഒരു ഹാഫ് ബ്രിഡ്ജ് റക്റ്റിഫയർ അല്ലെങ്കിൽ ഒരു ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയർ ആയിരിക്കാം എന്നാൽ ഇന്ന് മിക്ക ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയ റക്റ്റിഫയർ ആയ ഫുൾ ബ്രിഡ്ജ് റക്റ്റിഫയറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇത് LC ഫിൽറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റർ കപ്പാസിറ്റർ ഫിൽട്ടർ അല്ലെങ്കിൽ വെറും C ഫിൽട്ടർ ആകാം ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളിലും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന C ഫിൽട്ടറിനെ കുറിച്ച് നമുക്ക് ഇവിടെ വീണ്ടും ചർച്ച ചെയ്യാം ഡിസി ഡിസി കൺവെർട്ടറുകളുടെ പ്രധാന ഘടകങ്ങൾ MOSFET അല്ലെങ്കിൽ IGBT അല്ലെങ്കിൽ പവർ സെമികണ്ടക്റ്റർ സ്വിച്ച് ആയിരിക്കും അവിടെ കപ്പാസിറ്ററുകളും ഇൻഡക്റ്ററുകളും ഉണ്ടാകും അതിനാൽ ഈ പ്രധാന ഘടകങ്ങളെല്ലാം നിർദ്ദിഷ്ട ഔട്ട്പുട്ടുകൾ നേടുന്നതിന് നിർദ്ദിഷ്ട ടോപ്പോളജികളിൽ ഒരുമിച്ച് ഉണ്ടായിരിക്കും അത് ഈ കോഴ്സിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ഈ പ്രത്യേക കോഴ്സിന്റെ ലക്ഷ്യം ഡിസി ഡിസി കൺവെർട്ടർ ഡിസൈൻ ആണ് എന്നിരുന്നാലും പ്രാരംഭ ഘട്ടത്തിലോ പ്രാരംഭ പ്രക്രിയയിലോ നമ്മൾ റക്റ്റിഫയറും ഫിൽട്ടറും ചർച്ച ചെയ്യും കാരണം നമ്മൾക്ക് ഡിസി ഔട്ട്പുട്ട് ലഭിക്കേണ്ടതുണ്ട് 230 വോൾട്ട് എസി വോൾട്ടേജുള്ള വാൾ ഔട്ട്ലെറ്റ് ഉറവിടത്തിൽ നിന്നുള്ള ഡിസി ഡിസി കൺവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് ഈ ഘട്ടത്തിലെ ഡിസി ഔട്ട്പുട്ട് നൽകാം അതിനാൽ ഈ ആഴ്ചയിലെ പ്രാരംഭ ചർച്ച റക്റ്റിഫയർ ഫിൽട്ടർ ഡിസൈൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും